ഈ ആഴ്ചയിലേക്ക് സ്വാഗതം ഇന്റർകണക്റ്റിംഗ് മോഡലിംഗിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തോടെ നമ്മൾ ആരംഭിക്കുന്നു ഇന്റർകണക്റ്റിംഗ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുക്കു ശ്രമിക്കാം ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഡിസൈൻ ൽ കണ്ടു സർക്യൂട്ടിന്റെ ലേഔട്ട് സൃഷ്ടിക്കുമ്പോൾ അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ട്രാൻസിസ്റ്ററുകൾ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഗേറ്റുകൾ അവയുടെ പരസ്പര ബന്ധങ്ങൾ എന്നിവ പോലുള്ള അടിസ്ഥാന സജീവ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു സിലിക്കൺ ഫ്ലോറിൽ 2 പോയിന്റുകൾക്കിടയിൽ ചില വയറുകളോ ഇന്റർകണക്ഷനുകളോ പ്രവർത്തിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ ഇപ്പോൾ ഇന്റർകണക്ട് മോഡലിംഗ് ചെയ്യുക അതിനാൽ ആ പരസ്പരബന്ധങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതിനാൽ പ്രധാനമായും നമ്മൾ ആ പ്രോപ്പർട്ടികളെ 2 കോണുകളിൽ നിന്ന് നോക്കും ഒന്ന് പ്രതിരോധശേഷിയുള്ള ഗുണങ്ങളും രണ്ടാമത്തേത് കപ്പാസിറ്റീവ് പ്രോപ്പർട്ടികളുമായിരിക്കും ഇപ്പോൾ ഈ വയറുകളുടെ ഈ പ്രതിരോധശേഷിയും കപ്പാസിറ്റീവ് ഗുണങ്ങളും ഏത് തരത്തിലുള്ള ഡിലേയ് സവിശേഷതകളും നോയ്സ് കപ്പലിങ് പിന്നീട് കാണുമെന്ന് മനസ്സിലാക്കാനോ വിശകലനം ചെയ്യാനോ പ്രധാനമാണ് ഇത്തരത്തിലുള്ള സവിശേഷതകൾ ആ ഇന്റർകണക്ഷൻ ലൈനിൽ ഉൾപ്പെടാം അതിനാൽ വരികളുടെ സൈസിങ് സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് വരികൾ ഇടുങ്ങിയതാണെങ്കിൽ അത് വീതിയുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആയിരിക്കണം അതിനാൽ ഈ ഇന്റർകണക്ഷൻ മോഡലിംഗ് ഞങ്ങൾ അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കും ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതിനാൽ ഒരു ആധുനിക VLSI ചിപ്പിൽ തീർച്ചയായും ട്രാൻസിസ്റ്ററുകളുണ്ട് എന്നാൽ ചിപ്പ് ഏരിയയുടെ നല്ലൊരു ശതമാനവും ആന്തരിക കണക്റ്റേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഇക്കാലത്ത് ട്രാൻസിസ്റ്ററുകൾ വളരെ ചെറുതായിത്തീർന്നു പരസ്പരബന്ധങ്ങൾ ട്രാൻസിസ്റ്ററുകളെ നമ്മുടെ പ്രവർത്തന സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിനായി ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വഴി ചിപ്പ് ഏരിയയുടെ കാര്യത്തിലും ഡിലേയ് ലും അവർ ആധിപത്യം പുലർത്തുന്നു ഇപ്പോൾ ഒരു ലേഔട്ട് പ്രതിനിധീകരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ ഇവിടെ ഞാൻ സ്റ്റിക്ക് ഡയഗ്രം എന്ന പദം ഉപയോഗിച്ചു അതിനാൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പിന്നീട് ഇതിലേക്ക് മടങ്ങിവരും ഒരു ഉദാഹരണം ഉപയോഗിച്ച് ഇത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം ഒരു CMOS NOT ഗേറ്റിന്റെ ഉദാഹരണം ഞങ്ങൾ എടുക്കുന്നു അതിനാൽ CMOS NOT ഗേറ്റിന്റെ ഈ സ്കീമമാറ്റിക് ഡയഗ്രം ഇതുപോലെ കാണപ്പെടും 2 ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാകും ഇത് p ടൈപ്പ് ആയിരിക്കും ഇത് n ടൈപ്പ് ആയിരിക്കും ഇവയാണ് ഇൻപുട്ട് A ഇത് ഔട്ട്പുട്ട് f ആയിരിക്കും ഇത് നിങ്ങളുടെ പവർ സപ്ലൈ VDD ആയിരിക്കും ഇത് ഗ്രൌണ്ട് ആണ് ഇപ്പോൾ ഞങ്ങൾ ഈ CMOS NOT ഗേറ്റിന്റെ ലേഔട്ട് നോക്കുകയാണ് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പിന്നീട് ലേഔട്ട് വശങ്ങളിലേക്ക് വരും എന്നാൽ ലേഔട്ട് എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കീമാറ്റിക് സൈഡ് കാണിക്കുന്നു ഈ 2 ട്രാൻസിസ്റ്ററുകൾക്ക് p ടൈപ്പും n ടൈപ്പും ഇത് നിങ്ങളുടെ ഡ്രെയിനേജ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ സോഴ്സ് ആണെന്ന് പറയാം കൺവെൻഷനിലൂടെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം ഇത് ഡ്രെയിൻ ആണെങ്കിൽ ഇതാണ് സോഴ്സ് അതിനാൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഈ സോഴ്സ് അത് മറ്റ് ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ചാനൽ ഡിഫ്യൂഷൻ ലെയറിലാണ് രൂപപ്പെടുന്നത് ഇപ്പോൾ സാധാരണയായി ഒരു കളർ കോഡിംഗ് ഉണ്ട് ഞങ്ങൾ പിന്നീട് കളർ കോഡിംഗിലേക്ക് നോക്കും എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് ഇതുപോലെ കാണപ്പെടുന്നു പുൾ ഡൌൺ ട്രാൻസിസ്റ്ററിനും പുൾ അപ്പ് ട്രാൻസിസ്റ്റർ നുമുള്ള സോഴ്സ് ഡിഫ്യുഷൻ ലെയർ ആണ് ഇത് സാധാരണയായി അത് മറ്റൊരു നിറത്തിൽ കാണിക്കുന്നു ഞാൻ അത് ഡോട്ട് ചെയ്തതായി കാണിക്കട്ടെ സാധാരണയായി ഇത് ബ്രൌൺ നിറത്തിലാണ് കാണിക്കുന്നത് ഈ ഉറവിടവും ഡ്രെയിനും ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു കോൺടാക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം ഇത് സാധാരണയായി ഒരു വലിയ x തരത്തിലുള്ള ഒരു നോട്ടേഷൻ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഇവ 2 വ്യാപന മേഖലകളാണ് ഇത് p ടൈപ്പ് ട്രാൻസിസ്റ്ററിനുള്ളതാണ് ഇത് n ടൈപ്പ് ട്രാൻസിസ്റ്ററിനും മുകളിൽ VDDക്കും താഴെയുള്ള ഗ്രൌണ്ട് ലൈനും പ്രവർത്തിക്കണം അതിനാൽ VDD ഗ്രൌണ്ട് ലൈനുകൾ എന്നിവയെ വീണ്ടും മറ്റൊരു നിറം പ്രതിനിധീകരിക്കുന്നു ഇത് നിങ്ങളുടെ VDD മെറ്റൽ ലൈനാണെന്ന് പറയട്ടെ ഇതാണ് നിങ്ങളുടെ ഗ്രൌണ്ട് ലൈൻ വീണ്ടും ഈ ഡിഫ്യൂഷൻ മേഖലകൾ ഈ VDD ഗ്രൌണ്ട് എന്നിവയുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ മറ്റൊരു കണക്ഷനുണ്ട് കൂടാതെ ഈ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കേണ്ടതാണ് അതിനാൽ 2 സ്രോതസ്സും ഡ്രെയിനുകളും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണിത് ഇവിടെ നിന്ന് നിങ്ങൾ ഒരു ഔട്ട്പുട്ട് എടുക്കണം ഈ ഔട്ട്പുട്ട് വ്യത്യസ്ത ലേയേർസിൽ എടുക്കാം നമ്മൾ അത് മെറ്റലിൽ എടുക്കുന്നുവെന്ന് കരുതുക മെറ്റലിനായുള്ള കൺവെൻഷൻ നീലയാണ് അതിനാൽ ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇപ്പോൾ അർത്ഥമാക്കുന്നത് ഇൻപുട്ടുകളെക്കുറിച്ചാണ് ഇൻപുട്ടുകൾ ഈ 2 ട്രാൻസിസ്റ്ററുകളുടെ ഗേറ്റുകളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് ഇതുപോലെ പ്രതിനിധീകരിക്കുന്നു ചുവപ്പ് എന്ന മറ്റൊരു വ്യത്യസ്ത വർണ്ണ കൺവെൻഷൻ വീണ്ടും ഉപയോഗിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ എയെ പ്രതിനിധാനം ചെയ്യും അതിനാൽ ഈ CMOS ഇൻവെർട്ടറിന്റെ ലേഔട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഈ വീതി ഇവ ഞാൻ സംസാരിക്കുന്ന പരസ്പരബന്ധങ്ങളാണ് ഇവ ലൈനുകളോ വയറുകളോ ആണ് നിങ്ങൾക്ക് ചിലതരം വയറുകൾ പറയാൻ കഴിയും കാരണം അവയും ചില സിഗ്നലുകൾ വഹിക്കും ചില വയറുകൾ പോലും മെറ്റൽ ലെയർ നീല മെറ്റൽ ചുവപ്പ് പോളിസിലിക്കൺ ഇത് ഗേറ്റുകളും ഗ്രീൻ ഡോട്ട് ചെയ്ത പ്രദേശങ്ങളും ഡിഫ്യൂഷൻ റീജിയൻസ് എന്ന് വിളിക്കുന്നു ഇതാണ് ഇത്തരത്തിലുള്ള ഒരു നൊട്ടേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രം ചിലപ്പോൾ സ്കീമാറ്റിക് അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഒരു പ്രതീകാത്മക ലേഔട്ട് എന്നും വിളിക്കുന്നു എന്നാൽ സാധാരണയായി പ്രതീകാത്മക അർത്ഥം നമ്മുടെ ഓരോ പ്രദേശത്തെയും നിറം അല്ലെങ്കിൽ വ്യത്യസ്ത തണൽ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ അടുത്ത ചോദ്യം ഈ ലൈനുകളുടെ വീതിയും വേർതിരിക്കലും എത്രയാണെന്ന് നമുക്ക് ഇതിനകം അറിയാമെങ്കിൽ അത്തരം വിപുലമായ ഡയഗ്രം വരയ്ക്കേണ്ടതില്ല നമുക്ക് ഓരോ മേഖലയെയും ഒറ്റ വരിയിലൂടെ പ്രതിനിധീകരിക്കാം ഇപ്പോൾ ഡയഗ്രം ഇതുപോലെ കാണപ്പെടും അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന അതേ വർണ്ണ കൺവെൻഷൻ ഞാൻ ഉപയോഗിക്കുന്നു ചുവപ്പിനൊപ്പം ഇതുപോലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകും ഈ കോൺടാക്റ്റുകളെക്കുറിച്ച് ഞാൻ അവരെ ചെറുതായി പ്രതിനിധീകരിക്കുന്നു ഈ x നൊട്ടേഷനുകൾ ഇത് ഒരു തത്തുല്യമായ ലേഔട്ട് ആണ് ഇതിനെ ഒരു സ്റ്റിക്ക് ഡയഗ്രം എന്ന് വിളിക്കുന്നു ഇതിനെ ഒരു സ്റ്റിക്ക് ഡയഗ്രം എന്ന് വിളിക്കുന്നു കാരണം ഓരോ വരിയും നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന 0 വീതിയുള്ള ഒരു വരയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ ഇത് ഒരു വടി പോലെയാണ് പക്ഷേ നീലനിറം മെറ്റൽ സൂചിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഇതുപോലൊരു രേഖ വരയ്ക്കുമ്പോൾ ഈ വരിയുടെ ഏറ്റവും കുറഞ്ഞ വീതി എന്തായിരിക്കണമെന്ന് വ്യക്തമായി അറിയാം ഈ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ പിന്നീട് വരും ഈ കുറഞ്ഞ വീതിയും വേർതിരിക്കൽ നിയമങ്ങളും അതിനാൽ പോളിസിലിക്കൺ ലൈനും മെറ്റൽ ലൈനും പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ വേർതിരിവ് എന്തായിരിക്കണം ഈ നിയമങ്ങൾ ഇതിനകം അറിയപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ സ്റ്റിക്ക് ഡയഗ്രം വരച്ചു സ്റ്റിക്ക് ഡയഗ്രം ഈ ലേയൌട്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നേരെയാണ് അതിനാൽ സാധാരണയായി ഒരു ഡിസൈനർ ഒരു ലേഔട്ട് സൃഷ്ടിക്കുമ്പോൾ അത് സ്റ്റിക്ക് ഡയഗ്രമാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിക്ക് ഡയഗ്രാമിൽ നമ്മൾ വരയ്ക്കുന്ന രേഖകൾ അവ വലുപ്പത്തിലുള്ളവയാണ് സെറ്റ് സൈസ് എന്നാൽ വീതി ഞാൻ വീതിയും വേർതിരിക്കലുകളും എന്നാണ് അർത്ഥമാക്കുന്നത് വയറുകളിൽ ധാരാളം ലെയർ ഉണ്ട് കാരണം വയറുകൾ മെറ്റലിൽ ആയിരിക്കണമെന്നില്ല ഈ ഡയഗ്രാമിലെ പോലെ ചില വയറുകൾ മെറ്റലിലും ചിലത് വ്യാപനത്തിലും ചിലത് പോളിസിലിക്കണിലും കാണാം അതിനാൽ ഞങ്ങൾ അവയെ വ്യത്യസ്ത വർണ്ണ കൺവെൻഷനുകളാൽ സൂചിപ്പിക്കുന്നു പോളിസിലിക്കണും ഡിഫ്യൂഷൻ ലൈനും ക്രോസ്ചെയ്യുന്നിടത്തെല്ലാം ഒരു ക്രോസ്സും ഇവിടെ മറ്റൊരു ക്രോസ്സും ഉണ്ട് എന്നതാണ് കൺവെൻഷൻ പോലെയുള്ള ചില വയറുകളുടെ കീഴിൽ ട്രാൻസിസ്റ്ററുകൾ നിലനിൽക്കുന്നത് ഒരു ട്രാൻസിസ്റ്റർ രൂപപ്പെട്ടു അതിനാൽ ഞാൻ അതിനെ ഒരു സർക്കിളായി കാണിക്കുന്നു അതിനാൽ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാകും ഇത് മറ്റൊരു കൺവെൻഷൻ ആണ് അതിനാൽ നിങ്ങളുടെ സ്റ്റിക്ക് ഡയഗ്രം ലേയൌട്ടിൽ ഒരു പോളി സിലിക്കണും ഡിഫ്യൂഷൻ ലൈനും ക്രോസ് ചെയ്യുന്നതായി കണ്ടെത്തിയാൽ 2 ഓർത്തോഗണൽ ലംബ രേഖകൾ ഉണ്ട് അതിനാൽ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാകും അതിനാൽ ഈ ലേയൌട്ടിന്റെ ഈ സ്റ്റിക്ക് ഡയഗ്രം ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാം യഥാർത്ഥത്തിൽ ട്രാൻസിസ്റ്റർ ലെവൽ ഡയഗ്രം അല്ലെങ്കിൽ നെറ്റ്ലിസ്റ്റുമായി യോജിക്കുന്നു അത് ഇടതുവശത്ത് വലത് വശത്ത് ഞാൻ നന്നായി കാണിച്ചിരിക്കുന്നു ടെക്നോളജി സ്കെയിലിംഗ് ഉള്ള വയറുകൾ ഇടുങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് അവ നേർത്തതായിത്തീരുന്നു എന്നാണ് അവ നേർത്തതായിത്തീരുമ്പോൾ പ്രതിരോധത്തിന്റെയും മറ്റ് ഫലങ്ങളുടെയും ആഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പരസ്പരബന്ധിതമായ ഡിലേയ് RC ഡിലേയ് കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഇതിനകം സംസാരിച്ചു അതിനാൽ ആ ഡിലേയ് പ്രവർത്തനത്തിന്റെ വേഗത നിർണ്ണയിക്കും തീർച്ചയായും വൈദ്യുതി ഉപഭോഗത്തെ ബാധിക്കും കാരണം 2 വയറുകൾ പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വയറിൽ കുറച്ച് സിഗ്നൽ പരിവർത്തനം ഉണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റീവ് പ്രഭാവം ഉണ്ടാകും മറ്റൊന്ന് മറ്റ് വയറിലേക്ക് സിഗ്നൽ മാറുന്നതിന്റെ ഫലമായി ഉണ്ടാകാം ഒരു സിഗ്നൽ സംക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ പിന്നീട് ഇത് വീണ്ടും കാണും വൈദ്യുതി പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സിഗ്നൽ സംക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം ചില ഡൈനാമിക് വൈദ്യുതി വിസർജ്ജന ജോലികളും ശബ്ദവും സംഭവിക്കുന്നു അതിനാൽ ശബ്ദം പിടിച്ചേക്കാം ഒരു വരിയിൽ ഈ സിഗ്നലിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമ്പോഴെല്ലാം ചില ശബ്ദങ്ങൾ മറ്റ് ചില വരികളുമായി കപ്പാസിറ്റീവായി കൂടിച്ചേരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ശബ്ദത്തിന്റെ ആഘാതം അല്ലെങ്കിൽ കപ്ലിംഗിന്റെ ഈ കപ്പാസിറ്റീവ് കുറയ്ക്കുന്നതിന് അതിനാൽ പിന്തുടരുന്ന കൺവെൻഷൻ ഇതര ലെയർ ഓർത്തോഗണലായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കൂ ഞാൻ ഒരു ചിപ്പിന്റെ ലേഔട്ട് സൃഷ്ടിക്കുമ്പോൾ നിരവധി ലെയറുകൾ നിർമ്മിക്കപ്പെടുന്നു ആദ്യം സിലിക്കണിന് മുകളിൽ ഞങ്ങൾ ഡിഫ്യൂഷൻ സൃഷ്ടിക്കുന്നു തുടർന്ന് പോളിസിലിക്കൺ തുടർന്ന് മെറ്റലിന്റെ നിരവധി ലേയേർസ് ഇപ്പോൾ തുടർച്ചയായി 2 ലെയറുകളിൽ കപ്പാസിറ്റീവ് ഇഫക്റ്റ് പരമാവധി ആയിരിക്കും കാരണം കൂടുതൽ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ മൂല്യം കുറവായിരിക്കും അതിനാൽ തുടർച്ചയായ ലയേഴ്സിന്റെയോ കപ്പാസിറ്റൻസിന്റെയോ കപ്പാസിറ്റീവിന്റെയോ സ്വാധീനം കൂടുതലായിരിക്കും അങ്ങനെ ഒരു കൺവെൻഷൻ എന്ന നിലയിൽ നമ്മൾ പറയുന്നത് 2 വ്യത്യസ്ത ലെയറുകളിൽ 2 വയറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ ഇതുപോലെ പരസ്പരം ലംബമായിരിക്കട്ടെ എന്നാണ് അതിനാൽ ഈ 2 വയറുകൾക്കിടയിലുള്ള ഓവർലാപ്പിന്റെ വിസ്തീർണ്ണം കുറവാണ് അതിന്റെ ഫലമായി കപ്പാസിറ്റീവ് ഇഫക്റ്റും വലതുവശത്ത് കുറയ്ക്കും അതിനാൽ ഈ ലേയൌട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞങ്ങൾ ഇതുപോലുള്ള ഒരു കൺവെൻഷൻ പിന്തുടർന്നു ഈ വ്യാപനം പോലെയും പോളിസിലിക്കൺ ലേയേർസ് പരസ്പരം ലംബമായി പ്രവർത്തിക്കുന്നു ഈ വ്യാപനവും ഈ മെറ്റലും അവ പരസ്പരം ലംബമായി പ്രവർത്തിക്കുന്നു ഏകദേശം ഇത് ഒരു കൺവെൻഷനാണ് ഇത് ഡിസൈനർ പിന്തുടരാൻ ശ്രമിക്കുന്നു അങ്ങനെ കപ്പാസിറ്റീവ് ഇഫക്റ്റ് കുറയ്ക്കും ഇപ്പോൾ വയർ ജ്യാമിതികളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഡയഗ്രം പരാമർശിക്കുന്നു അവിടെ 2 വയറുകൾ പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്നതായി കാണിക്കുന്നു ഇപ്പോൾ ഈ വയറുകൾ സിലിക്കൺ തറയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു വയർ 0 കട്ടിയുള്ളതായിരിക്കരുത് ഒരു പരിമിതമായ കനം ഉണ്ട് അതിനാൽ ഇത് ഒരു ചതുരാകൃതി പോലെയാകും വയർ പോലെ സൃഷ്ടിക്കപ്പെട്ട 3 ഡൈമൻഷണൽ ആകൃതി നിങ്ങൾക്ക് പറയാം അതിനാൽ ഈ ആകൃതിയിൽ ഓരോന്നും ഒരു നീളം l വീതി w കനം t എന്നിവ ഉണ്ടായിരിക്കും കൂടാതെ പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്ന അത്തരം 2 വയറുകളും വേർതിരിക്കൽ s ആയിരിക്കും ഒരേ ലയേഴ്സിൽ ഒരു വയർ s വീതിയും ആയിരിക്കണം കൂടാതെ മറ്റൊരു ലയേഴ്സിൽ നിന്ന് s വേർതിരിക്കുകയും വേണം അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു വയർ പ്രവർത്തിക്കും ഇതുപോലെ മറ്റൊരു സമാന്തര വയർ ഓടാം ഇതുപോലുള്ള മറ്റൊരു സമാന്തര വയർ ഉണ്ടാകാം അതിനാൽ w വീതിയും s വേർതിരിക്കലാണ് അതുപോലെ ഇവിടെയും s ഉണ്ടാകും അതിനാൽ ഈ w s ഒരുമിച്ച് എടുക്കുന്നതിനെ പിച്ച്എന്ന് വിളിക്കുന്നു അതിനാൽ പിച്ചിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് പിച്ച് എന്നാൽ ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൈർഘ്യത്തിനുള്ളിൽ എന്നതിനർത്ഥം നിങ്ങൾക്ക് എത്ര വരകൾ വരയ്ക്കാൻ കഴിയും എന്നാണ് അതിനാൽ വയറിനുവേണ്ടിയുള്ള ഈ w s ഇടവും അടുത്ത വയർ ലേഔട്ട് ചെയ്യുന്നതിന് മുമ്പ് വേർതിരിക്കലും നമുക്ക് ഉണ്ടായിരിക്കണം അത്തരം 10 സമാന്തര വയറുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ലേഔട്ട് ചെയ്യണം നിങ്ങൾ നൽകേണ്ട മൊത്തം സ്ഥലത്തിന്റെ അളവ് 10 w s ആയിരിക്കും അതിനാൽ ഇത് പിച്ചിനെ സൂചിപ്പിക്കുന്നു അതിനാൽ പിച്ച് ഒരു കാര്യമാണ് ഈ വയറുകളുടെ മറ്റൊരു വശം ആസ്പെക്ട് റെഷിയോ എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ ആസ്പെക്ട് റെഷിയോ കനം വീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആപേക്ഷിക ജ്യാമിതിയെ പ്രതിനിധീകരിക്കുന്നു t w എന്നത് വീക്ഷണ അനുപാതമായി നിർവചിക്കപ്പെടുന്നു ഇപ്പോൾ പഴയ പ്രോസസ്സ് ടെക്നോളജികളിൽ നിങ്ങൾക്ക് വളരെ നേരത്തെ ഉണ്ടായിരുന്നത് വയറുകൾ വളരെ ഇടുങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവ വളരെ വിശാലമാണ് ജ്യാമിതിയിൽ അവ കൂടുതൽ വിശാലമാണ് പക്ഷേ വളരെ ഇടുങ്ങിയതാണ് അതിനാൽ ആസ്പെക്ട് റെഷിയോ t w വളരെ ചെറുതായിരുന്നു ഇത് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ടെക്നോളജി സ്കെയിലിംഗ് ഉപയോഗിച്ച് ഈ അടിസ്ഥാന വയറുകളും ഈ ലേയൌട്ടുകളുടെ ഈ ഭാഗങ്ങളും നിർമ്മിക്കുന്നതിനുള്ള കൂടുതൽ കൃത്യമായ സംവിധാനം ഇപ്പോൾ നമുക്കുണ്ട് അതിനാൽ ഇപ്പോൾ അവയുടെ വീതിയുടെ അടിസ്ഥാനത്തിൽ വളരെ നേർത്ത വയറുകൾ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ w കുറഞ്ഞു ആധുനിക പ്രക്രിയകളിൽ 2 എന്ന ക്രമത്തിന്റെ വീക്ഷണ അനുപാതം ഉണ്ടായിരിക്കുന്നത് തികച്ചും പ്രായോഗികമാണ് അതായത് കനം t ആണെങ്കിൽ വീതി t 2 ആകാം അതിനാൽ കട്ടിയേക്കാൾ കുറവാണ് ഇതാണ് ഇന്ന് നമുക്കുള്ളത് ലെയറിംഗ് നോക്കാൻ നിങ്ങൾ സബ്സ്ട്രേറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് പറയുന്നത് പോലെ നിരവധി ലേയേർസ് ഞാൻ കാണിക്കുന്നു അതിനാൽ ഞാൻ ഒരു എടുക്കുന്നത് 180 നാനോമീറ്റർ പ്രക്രിയയുടെ ഒരു പ്രത്യേക ഉദാഹരണമാണ് അത് വീണ്ടും വളരെ പുതിയതല്ല പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കും അതിനാൽ നിരവധി മെറ്റൽ ലേയേർസ് ഉണ്ടാകാം ഞാൻ പ്രത്യേകിച്ച് മെറ്റൽ ലേയേർസ് കാണിക്കുന്നു കുറഞ്ഞത് 6 മെറ്റൽ ലേയേർസ് എങ്കിലും ഉണ്ടാകാം ചില സമയങ്ങളിൽ കൂടുതൽ അതിനാൽ മെറ്റൽ ലേയേർസ് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴ്ന്ന മെറ്റൽ ലയേഴ്സിനെ നമ്മൾ അതിനെ M1 M2 M3 M4 എന്നിങ്ങനെ വിളിക്കുന്നു അതിനാൽ നിങ്ങൾ അടിവസ്ത്രത്തിലേക്ക് താഴ്ന്നപ്പോൾ ഞങ്ങൾക്ക് വയറുകൾ കൂടുതൽ കൃത്യമായും കനംകുറഞ്ഞും ഇടാം എന്നതാണ് നിയമം നമ്മൾ മുകളിലേക്ക് പോകുന്തോറും വയറുകൾ കട്ടിയുള്ളതായിത്തീരുന്നു കാരണം ഉപരിതലത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ ഉണ്ടാകും ഉയർന്ന ലേയേർസിൽ നേർത്ത വയറുകൾ സ്ഥാപിക്കുന്നത് അത്ര വിശ്വസനീയമല്ല അതിനാൽ ഞങ്ങൾ വയറുകളുടെ വീതി മുകളിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ വിശാലമാവുകയും ചെയ്യും അതിനാൽ ആദ്യത്തെ മെറ്റൽ ലേയേർ M1 സാധാരണയായി നേർത്തതും ഇടുങ്ങിയതുമായിരിക്കും അതിനാൽ ഈ വയർ ട്രാൻസിസ്റ്ററുകളെയും ഉയർന്ന സാന്ദ്രതയുള്ള സെല്ലിനെയും ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കും കൂടാതെ ഉയർന്ന തലത്തിലുള്ള വയറുകൾ പരസ്പരബന്ധങ്ങൾക്ക് ആയിരിക്കും M2 മുതൽ M4 വരെ 3 ലേയേർസ് അവ M1 നേക്കാൾ കട്ടിയുള്ളതും അവ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് കൂടുതൽ നീളമുള്ള വയറുകൾക്കായി പ്രവർത്തിപ്പിക്കാൻ കഴിയും കൂടാതെ M5 M6 എന്നിവ കൂടുതൽ കട്ടിയുള്ളതായിരിക്കുമെന്ന് പറയുകയും അവ നിങ്ങളുടെ പവർ സപ്ലൈ ക്ലോക്ക് എന്നിവ പോലുള്ള നിർണായക നെറ്സ് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഈ 180 നാനോമീറ്റർ പ്രക്രിയയുടെ സാധാരണ മൂല്യങ്ങൾ ഈ പട്ടികയിൽ നിങ്ങൾ കാണുന്നു വയർ വീതി w യുടെ വീതിയും ആസ്പെക്ട് റെഷിയോ എന്തായിരിക്കും അതിനാൽ നിങ്ങൾ ഇതിലേക്ക് മടങ്ങുക s എന്നത് വേർതിരിക്കലാണ് t എന്നത് കനം w എന്നത് വീതിയാണ് അതിനാൽ ഞങ്ങൾ ഈ കണക്കുകൾ വേർതിരിക്കൽ വീതി കനം വീക്ഷണ അനുപാതങ്ങൾ എന്നിവ കാണിക്കുന്നു നിങ്ങൾ കാണുന്നതുപോലെ നിങ്ങൾ ലെയർ 1 മുതൽ ലെയർ 6 വരെ നീങ്ങുമ്പോൾ ക്ഷമിക്കണം അതിനാൽ വയറുകൾ കട്ടിയുള്ളതും കട്ടിയുള്ളതുമായിത്തീരുന്നു വീതി വലുതായിക്കൊണ്ടിരിക്കുന്നു വേർപിരിയലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ആസ്പെക്ട് റെഷിയോ നിങ്ങൾ ലളിതമായ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ അത് 1 2 2 ആണ് ൽ ഏകദേശം 2 അതിനാൽ ആസ്പെക്ട് റെഷിയോ 2 ആയി തുടരും അടുത്തത് വയർ റെസിസ്റ്റൻസ് വരുന്നു ഇപ്പോൾ ഈ വയറുകൾ മറ്റൊന്നുമല്ല കട്ടിയുള്ളതും നീളമുള്ളതും വീതിയുമുള്ള ഇത്തരത്തിലുള്ള ഖര ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളാണ് അത്തരമൊരു ബ്ലോക്കിനായി ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പ്രതിരോധം നൽകുന്നത് ഇതുപോലുള്ള ഒരു സമവാക്യത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാം ρ ആണ് റെസിസിറ്റിവിറ്റി എന്ന് വിളിക്കുന്ന കോൺസ്റ്റന്റ് അതിനാൽ പ്രതിരോധം l ദൈർഘ്യത്തിന് ആനുപാതികമായിരിക്കും അത് കട്ടിയുള്ള t ന് വിപരീത അനുപാതമായിരിക്കും കൂടാതെ w ന് വിപരീത അനുപാതവും ആയിരിക്കും ഇപ്പോൾ ഒരു യൂണിറ്റ് കട്ടിയുള്ള റെസിസ്റ്റൻസ് കാരണം t സാധാരണയായി ഒരു പ്രത്യേക ലെയറിന് സ്ഥിരമായിരിക്കും അങ്ങനെ pt R⧠ വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക മൂല്യം ഞങ്ങൾ നിർവ്വചിക്കുന്നു അതിനാൽ ഞങ്ങൾ പറയുന്നത് ഇതാണ് R എന്നത് R lw ന് തുല്യമാണ് R⧠ എന്താണ് സൂചിപ്പിക്കുന്നത് L എന്നത് w ന് തുല്യമാണോ എന്ന് നോക്കൂ R എന്നത് R⧠ ന് തുല്യമാണ് എന്താണ് R⧠ എന്ന് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും ചതുരാകൃതിയിലുള്ള വയർ ആകൃതിയിലുള്ള ഒരു വയറിന്റെ പ്രതിരോധമാണ് R⧠ കാരണം ഒരു ചതുരാകൃതിയിലുള്ള വയറിന് l w ന് തുല്യമായിരിക്കും അതിനാൽ വയർ ഇതുപോലെ കാണപ്പെടും l w എന്നിവ തുല്യമാണ് ഇവ പറയുന്നു 2 ടെർമിനലുകളാണ് നീളം ഇത്രയെന്ന് പറയുക വീതിയും തുല്യമാണ് അതിനാൽ നന്നായി അർത്ഥമാക്കുന്നത് ചതുരം ഇതുപോലെയാണോ അതോ ഈ ചതുരം വലുതാണോ എന്നത് പ്രശ്നമല്ല അതിനാൽ l ഉം w ഉം തുല്യമായിരിക്കുന്നിടത്തോളം കാലം ഈ സമവാക്യം അനുസരിച്ച് അതിന്റെ പ്രതിരോധ മൂല്യം ഒന്നുതന്നെയായിരിക്കും ഇതാണ് ഞങ്ങൾ R⧠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്റെ വരി ഇങ്ങനെയാണെന്ന് കരുതുക ദൈർഘ്യമേറിയ അത്തരം നിരവധി ചെറിയ ബോക്സുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ടെർമിനലുകൾക്കിടയിൽ പ്രതിരോധം എന്തായിരിക്കും ഓരോ ബോക്സിലും പ്രതിരോധം R⧠ ഉണ്ടായിരിക്കും അതിനാൽ ഇതിന് 4 × R⧠ പ്രതിരോധം ഉണ്ടാകും അതിനാൽ ഒരു വയർ പ്രതിരോധം കണക്കാക്കുന്നതിനുള്ള ഒരു ലളിതമായ സംവിധാനമുണ്ട് നിങ്ങൾ ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള സവിശേഷത എടുത്ത് അത്തരം എത്ര ചതുരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് കണക്കാക്കുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ വീതി w ആണോ എന്ന് പറയുക w ഇത് എന്തും ആകാം നിങ്ങളുടെ ദൈർഘ്യം l ആണ് സ്വാഭാവികമായും w എന്നത് l നേക്കാൾ കുറവാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് w ന്റെ വലിപ്പമുള്ള ഒരു ചതുരം ഉണ്ടെന്ന് അനുമാനിക്കുക ഓരോ ചതുരവും w കൊണ്ട് w ആണെന്ന് സങ്കൽപ്പിക്കുക എത്ര ചതുര സംഖ്യാ ചതുരങ്ങൾ ചതുരങ്ങളുടെ എണ്ണം lw നൽകും അതിനാൽ നിങ്ങളുടെ പ്രതിരോധം lw x R⧠ ആയിരിക്കും ഈ സമവാക്യം നൽകുന്നത് പ്രതിരോധ മൂല്യം കണക്കാക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഈ ഡയഗ്രം യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയുന്നു അതിനാൽ നിങ്ങൾ സ്ക്വയറുകളുടെ എണ്ണം കണക്കാക്കുക അതിനാൽ നിങ്ങളുടെ വയർ ആകൃതിയിലുള്ളതാണോ അതോ നീളവും വീതിയും അനുസരിച്ച് നിങ്ങൾ ഒരേ ഗുണനത്താൽ വയർ വർദ്ധിപ്പിക്കുന്നു ഘടകം വീതി ഇരട്ടിയാക്കുകയും നീളം ഇരട്ടിയാക്കുകയും ചെയ്യുക നിങ്ങളുടെ പ്രതിരോധ മൂല്യം അതേപടി നിലനിൽക്കും ഇതാണ് ആശയം അതിനാൽ ഞാൻ ഒരു ഗേറ്റ് മുകളിലേക്ക് ഉയർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഗേറ്റ് വലുതോ ചെറുതോ ആക്കുന്നു അതിനാൽ ചിത്രത്തിൽ വരുന്ന ആശയം ഇതാണ് ചാനൽ ഏരിയ ഡിഫ്യൂഷൻ പോളിസിലിക്കൺ ഓവർലാപ്പ് ഏരിയ എന്നിവ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നു എത്ര ചതുരങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന പ്രതിരോധം R സ്ക്വയർ R⧠ ഫൈൻ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധത്തിന്റെ കൃത്യമായ മൂല്യം നമുക്ക് കണക്കാക്കാം ഇപ്പോൾ ഇന്റെർക്കണക്ഷൻ അടിസ്ഥാനത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സാധാരണയായി മെറ്റലിലാണ് അതിനാൽ മുമ്പ് നമ്മൾ ഇന്റെർക്കണക്ഷൻനു അലുമിനിയം ഉപയോഗിച്ചു ഇവയാണ് പ്രതിരോധം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അലുമിനിയത്തിന് 2 8 മൈക്രോ ohms' സെന്റിമീറ്റർ പ്രതിരോധശേഷിയുണ്ടെങ്കിലും സ്വർണം ചെമ്പ് വെള്ളി തുടങ്ങിയ വസ്തുക്കൾക്ക് മികച്ച പ്രതിരോധശേഷി ഉണ്ട് സ്വർണ്ണം ചെലവേറിയതാണ് പക്ഷേ ചെമ്പിന് വില കുറവാണ് പക്ഷേ ചെമ്പിന് 1 7 എന്ന് പറയാൻ കഴിയും വെള്ളി താരതമ്യപ്പെടുത്താവുന്നതാണ് അതിനാൽ ആധുനിക പ്രക്രിയകൾ അവർ സാധാരണയായി ചെമ്പ് ഉപയോഗിക്കുന്നു എന്നാൽ ചെമ്പിന്റെ ഒരു പ്രശ്നം ചെമ്പ് ആറ്റങ്ങൾ സിലിക്കണിലേക്ക് വ്യാപിക്കുന്നതിലൂടെ ട്രാൻസിസ്റ്ററിന് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നതാണ് അതിനാൽ ഒരു ഡിഫ്യൂഷൻ തടസ്സം സൃഷ്ടിക്കുന്നതിനും ഈ ചെമ്പ് ലേയേർസ് വയറുകളായതിനാലും ഡിഫ്യൂഷൻ തടസ്സത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിന് ശരിയായ ശ്രദ്ധ ആവശ്യമാണ് ഈ വിദ്യകൾ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത ലോഹ പാളികളുടെ ഷീറ്റ് പ്രതിരോധത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചതുപോലെ വ്യത്യസ്ത ലേയേർസിനുള്ള സാധാരണ പ്രതിരോധ മൂല്യങ്ങളാണ് ഇവ ഷീറ്റ് പ്രതിരോധം ഓരോ ബോക്സിലും ohm ആണ് ഇത് നിങ്ങളുടെ അടിസ്ഥാന R ബോക്സാണ് R ബോക്സ് മൂല്യം നിങ്ങൾ മെറ്റൽ 1 കാണുന്നു കാരണം ലൈനുകൾ ഇടുങ്ങിയതാണ് പ്രതിരോധം 0 08 ആണ് എന്നാൽ നിങ്ങൾ മുകളിലേക്ക് നീങ്ങുമ്പോൾ ലൈനുകൾ കട്ടിയുള്ളതാകുന്നു അതിനാൽ പ്രതിരോധ മൂല്യം 0 02 കുറയുന്നു അതുപോലെ പോളിസിലിക്കോണിന് ലോഹത്തേക്കാൾ വളരെ കൂടുതലാണ് 3 മുതൽ 10 വരെ ഡിഫ്യൂഷന് 3 ന് സില്ലിസൈഡ് ആണെങ്കിൽ സില്ലിസൈഡഡ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മാർഗമാണ് പക്ഷേ വളരെ ലളിതമായ ഒരു സില്ലിസൈഡ് ഇല്ലെങ്കിൽ പ്രതിരോധ മൂല്യം വർദ്ധിക്കുന്നു പ്രതിരോധ മൂല്യം ഇതുപോലെ മാറുന്നു അതിനാൽ നിങ്ങൾ മുകളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു താഴേക്ക് നീങ്ങുക മൂല്യങ്ങൾ വർദ്ധിക്കുന്നു അതിനാൽ മറ്റൊരു പ്രശ്നം കോൺടാക്റ്റ് പ്രതിരോധമാണ് ഇവിടെയുള്ളതുപോലെ 2 ലേയേർസിനിടയിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റ് ആവശ്യമുള്ളപ്പോഴെല്ലാം ചുവപ്പും നീലയും തമ്മിലുള്ള ബന്ധം ഞാൻ കാണിക്കുന്നു ചുവപ്പ് പോളിസിലിക്കണെ പ്രതിനിധീകരിക്കുന്നു നീല മെറ്റലിനെ പ്രതിനിധീകരിക്കുന്നു സാധാരണയായി എനിക്ക് ഒരു കട്ട് അല്ലെങ്കിൽ കോൺടാക്റ്റ് ആവശ്യമാണ് ഇപ്പോൾ അത്തരം ഓരോ കോൺടാക്റ്റിനും സാധാരണയായി ഒരു പ്രതിരോധ മൂല്യം ഉണ്ടായിരിക്കും അത് 2 മുതൽ 20 ohm വരെ വ്യത്യാസപ്പെടാം അതിനാൽ ഉയർന്ന പ്രതിരോധം മറ്റ് ചില പ്രശ്നങ്ങൾക്കുള്ള RC ഡിലേയ് ആയിരിക്കും അതിനാൽ കോൺടാക്റ്റുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കോൺടാക്റ്റിന് പകരം നിങ്ങൾക്ക് നിരവധി ചെറിയ കോൺടാക്റ്റുകൾ ഉപയോഗിക്കാം ഇവിടെ 2 വയറുകൾ അടുത്തടുത്തായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് ഈ 8 കോൺടാക്റ്റുകൾ ഉണ്ടായിരിക്കാം ഈ ജാലകത്തിൽ അതുപോലെ ഒരു കോണുള്ളിടത്ത് 16 4 4 കോൺടാക്റ്റുകൾ ഉണ്ടെന്ന് ഇവിടെ കാണാം ഈ കോൺടാക്റ്റിന്റെ നെറ്റ് പ്രതിരോധ മൂല്യം കുറവായിരിക്കും എന്നതാണ് ഫലം ഇതാണ് സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ വയർ കപ്പാസിറ്റൻസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ലേയേർസിൽ പ്രവർത്തിക്കുന്ന ഒരു വയർ ഞാൻ വീണ്ടും പരിഗണിക്കുന്നുവെന്ന് കരുതുക ഞാൻ ഒരു സൈഡ് വ്യൂ നോക്കുന്നു അതിനാൽ അതേ ലേയേർസിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന മറ്റ് വയറുകളും ഉണ്ടാകാം മുകളിലെ ലേയേർസിൽ ചില വയറുകൾ പ്രവർത്തിച്ചേക്കാം ചുവടെയുള്ള ലേയേർസിൽ ചില വയറുകൾ പ്രവർത്തിച്ചേക്കാം അതിനാൽ മൊത്തം കപ്പാസിറ്റീവ് ഇഫക്റ്റിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഈ തൊട്ടടുത്തുള്ള വയറുകൾക്കിടയിൽ കപ്പാസിറ്റൻസ് ഉണ്ടാകാം ഞാൻ അതിനെ അടുത്തുള്ള C എന്ന് വിളിക്കുന്നു വലതുവശത്ത് ഒന്നുണ്ട് ഇടതുവശത്ത് ഒന്നുണ്ട് അതിനാൽ കോൺട്രിബ്യുഷൻ രണ്ടുതവണയാണ് മുകളിലെ ലെയർ C മുകളിലും C താഴെയുമുള്ള വരയുള്ള കപ്പാസിറ്റൻസ് അതിനാൽ ഈ വയർ അനുഭവിക്കുന്ന മൊത്തം പ്രതിരോധം അല്ലെങ്കിൽ മൊത്തം കപ്പാസിറ്റൻസ് C മൊത്തം ആയിരിക്കും അതിനാൽ നിങ്ങൾ ഒരു നല്ല എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഇത് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ തൊട്ടടുത്തുള്ള ലെയർ വയറുകൾ പരസ്പരം ഓർത്തോഗണൽ ആകാനുള്ള കാരണം C ടോപ്പിന്റെയും C ബോട്ടമിന്റെയും മൂല്യങ്ങൾ കുറയ്ക്കുക എന്നതാണ് അവ തികച്ചും സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് മൂല്യം എല്ലാം കൂടുതലായിരിക്കും അതിനാലാണ് അവരെ ഓർത്തോഗണൽ ആക്കുന്നത് ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് മൂല്യം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ പദപ്രയോഗം നൽകുന്നത് ε മാധ്യമത്തിന്റെ ഒരു ഡീലക്ട്രിക് സ്ഥിരാങ്കമാണ് A എന്നത് പ്ലേറ്റുകളുടെ വിസ്തീർണ്ണവും d എന്നത് വേർതിരിക്കലുമാണ് ഓവർലാപ്പ് കൂടുന്തോറും വിസ്തീർണ്ണം കൂടുതലാണ് കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും വയറുകളോ പ്ലേറ്റുകളോ തമ്മിലുള്ള ദൂരം കൂടുന്തോറും ശേഷി കുറയും അതിനാൽ ഇതാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് കൂടാതെ ε ടേണുകളിൽ ചില പാരാമീറ്റർ k നൽകുന്നത് ശൂന്യമായ സ്ഥലത്തിന്റെ ഡീലക്ട്രിക് കോൺസ്റ്റന്റുകളാൽ ഗുണിച്ചാൽ ഇത് ε0 ആണ് സിലിക്കൺ ഡൈ ഓക്സൈഡിന് k യുടെ മൂല്യം സാധാരണയായി 3 9 ആണ് ഈ k യുടെ മൂല്യം കുറയ്ക്കുക ഈ എപ്സിലോൺ ചെറുതായിരിക്കും അതിനാൽ കപ്പാസിറ്റീവ് പ്രഭാവം ചെറുതായിരിക്കും അതിനാൽ ഇക്കാലത്ത് k യുടെ കുറഞ്ഞ മൂല്യമുള്ള ചില വസ്തുക്കൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിനർത്ഥം സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റൻസ് ഇതിനകം തന്നെ ഞാൻ ലേയേർസിനെ സൂചിപ്പിച്ച കപ്പാസിറ്റൻസ് ഈ ബ്ലോക്ക് സോളിഡ് ബ്ലോക്ക് കറുപ്പായി കാണിച്ചിരിക്കുന്നു ഇത് കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഒരു കപ്പാസിറ്റൻസ് രൂപപ്പെടുന്ന മുകളിലും താഴെയുമായി ലേയേർസ് ഉണ്ടാകാം ഇപ്പോൾ സാധാരണയായി വയറിംഗ് കപ്പാസിറ്റൻസ് മൂല്യങ്ങളും ഇവിടെ കാണിക്കുന്നു മൈക്രോമീറ്റർ സ്ക്വയർ മൈക്രോൺ സ്ക്വയർ മുഖേനയുള്ള ഫെംറ്റോ ഫറാഡ് ആണ് സബ്സ്ട്രേറ്റിലേക്കുള്ള പോളിസിലിക്കൺ 058 മെറ്റൽ 1 മുതൽ സബ്സ്ട്രെട് വരെ കുറവാണ് മെറ്റൽ 2 കുറവാണ് മെറ്റൽ 3 കുറവാണ് എന്നാൽ സബ്സ്ട്രെട് ഡിഫ്യുഷൻ ലെയറുകൾക്കിടയിൽ ഇത് കാണാനാകുന്നതുപോലെ വളരെ ഉയർന്നതാണ് 0 36 0 ഈ കണക്കുകൾ ഇത്രയും പഴയ ഒരു പ്രക്രിയയ്ക്കുള്ളതാണ് ഒരു മൈക്രോൺ CMOS പ്രക്രിയ എന്നാൽ സാങ്കേതികവിദ്യ മൂല്യങ്ങൾ കുറച്ചതിനാൽ ആപേക്ഷിക മൂല്യങ്ങൾ ഇപ്പോഴും സമാനമാണ് ആ ഡിഫ്യുഷൻ ശേഷി ആധിപത്യം പുലർത്തുന്നു ഈ ഗ്രാഫ് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ മെറ്റൽ ലെയർ M2 കാണിക്കുന്നു അതിനാൽ വയറുകളുടെ വീതിയിൽ കപ്പാസിറ്റൻസ് മൂല്യം എങ്ങനെ മാറുന്നു അതിനാൽ ഈ വശത്ത് ഞാൻ കപ്പാസിറ്റൻസ് കാണിക്കുന്നു ഇതാണ് വീതി കാണിച്ചിരിക്കുന്ന ഈ വ്യത്യസ്ത പ്ലോട്ടുകൾ അവ വ്യത്യസ്ത പിച്ചിനെ പ്രതിനിധീകരിക്കുന്നു അതായത് വേർതിരിക്കൽ അതിനാൽ വയറുകൾ വ്യാപകമായി വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ഡോട്ട് അനന്തതയ്ക്ക് തുല്യമാണെന്ന് കാണിക്കുന്നു ഇവിടെ കപ്പാസിറ്റൻസ് കുറവാണ് പക്ഷേ വയറുകൾ കൂടുതൽ അടുത്തുവരുന്തോറും കപ്പാസിറ്റൻസ് മൂല്യങ്ങൾ വർദ്ധിക്കുന്നു അതിനാൽ ഈ പൊതു പ്രവണത എല്ലാ ലേയേർസിനും ബാധകമാണ് അതിനാൽ ഈ ആശയം നിങ്ങൾക്ക് നൽകാൻ മാത്രമാണ് ഞാൻ ഈ ഡയഗ്രം കാണിച്ചത് അതിനാൽ നമ്മൾ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഈ ഇന്റർകണക്ട് മോഡലിംഗിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ തുടരും